ഹലോ പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തെക്കുറിച്ചുള്ള ഈ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം നാം നമ്മുടെ മുമ്പത്തെ ലക്ച്ചറിൽ തുടങ്ങി വെച്ച ചിനുവ അച്ഛബേയുടെ തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന നോവലിനെ കുറിച്ചുള്ള ചർച്ച നമ്മുടെ ഈ ലക്ച്ചറിലും തുടരുകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തെ കൂടിക്കാഴ്ചയിൽ നാം ചിനുവ അച്ഛബേയുടെ നോവൽ കൊളോണിയൽ ഇടപെടലിനെ ആഫ്രിക്കൻ വീക്ഷണ കോണിൽ നിന്നുകൊണ്ട് കാണാൻ എങ്ങനെ സഹായിക്കുന്നുവെന്ന് പരിശോധിച്ചു നൈജീരിയയിലുള്ള ഒരു ആഫ്രിക്കൻ ഗ്രാമ സമൂഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമ്മെ പരിചയപ്പെടുത്തി കൊണ്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്തതു പോലെ ആഫ്രിക്കൻ ഗ്രാമീണ ജീവിതത്തെ ഒരു യൂറോപ്യൻ പുറംകാഴ്ച്ചക്കാരന്റെ വീക്ഷണത്തിലൂടെ അവതരിപ്പിച്ച കൊൺറാടിന്റെ ഹാർട്ട് ഓഫ് ഡാർക്നെസ്സ് എന്ന നോവലുമായി താരതമ്യപ്പെടുത്തിയാൽ അച്ചബേയുടെ തിങ്സ് ഫാൾ അപ്പാർട്ടിൽ മാർലോയ്ക്ക് തോന്നിയത് പോലെ അവിടുത്തെ ഗ്രാമത്തിലെ ഉന്മാദ രംഗങ്ങളൊന്നും ഒരു ഭ്രാന്താലയത്തിലെ പ്രവർത്തനങ്ങളായി തോന്നാത്ത ഒരു നാട്ടുകാരൻ എന്ന സ്ഥാനത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും വാസ്തവത്തിൽ തിങ്ങ്സ് ഫാൾ അപ്പാർട്ട് നോവലിൽ ഓരോ പ്രവർത്തനങ്ങളും ഒരു ഉചിതമായ ലോകവീക്ഷണത്തിനുള്ളിൽ കൃത്യമായി അനുയോജ്യമാകുന്നു അച്ഛബേയുടെ നോവലിന്റെ ഭംഗി ഈ ലോകവീക്ഷണം വായനക്കാരനിൽ എത്തിക്കാനും അതിനൊരു സാംസ്കാരിക ബലം നൽകാനും എത്ര വേഗത്തിൽ സഹായിക്കുന്നു എന്നതാണ് കൊൺറാടിന്റെ ഹാർട്ട് ഓഫ് ഡാർക്നെസ്സിന്റെ വായനക്കാരൻ എന്നതിൽനിന്ന് വിപരീതമായി അച്ഛബേയുടെ തിങ്സ് ഫാൾ അപ്പാർട്ടിന്റെ വായനക്കാരൻ എന്ന നിലയിലേക്ക് നമ്മൾ സ്ഥാനം മാറുന്നതിന്റെ ഒരു ഫലം ഈ കൊളോണിയൽ ഇടപെടൽ ഒരു പുതിയ വെളിച്ചത്തിൽ നമുക്ക് മുന്നിൽ സ്വയം വെളിപ്പെടുത്തുന്നു എന്നതാണ് ഉദാഹരണത്തിന് ഉമൊഫിയ ഗ്രാമത്തിലേക്ക് ഒരു യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷനറിയുടെ വരവിനെ വിവരിക്കുന്ന 'തിങ്സ് ഫാൾ അപ്പാർട്ടിലെ' പതിനാറാം അധ്യായത്തിലെ ഒരു രംഗം എടുക്കാം നോവലിൽ ഈയൊരു രംഗം അവതരിപ്പിക്കുമ്പോഴേക്കും വായനക്കാർ ആഫ്രിക്കൻ വംശത്തിന്റെ മത ജീവിതത്തിന്റെ ഭാഗമായ വിവിധ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സൂക്ഷ്മമായ വിവരങ്ങൾ വിവരിക്കുന്ന അച്ഛബേ എഴുതിയ താളുകളിലൂടെ ഇതിനകം കടന്നുപോയിട്ടുണ്ടായിരിക്കും ഇതിനർത്ഥം യൂറോപ്യൻ മിഷണറിയുടെ വരവ് വിവരിക്കുന്ന രംഗം എത്തുമ്പോഴേക്കും ആഫ്രിക്കൻ മതാചാരങ്ങൾ വായനക്കാർക്ക് വളരെ പരിചിതമായിത്തീരുകയും അതൊരു മാതൃകയായി അംഗീകരിക്കാനും തുടങ്ങിയിട്ടുണ്ട് അതിനർത്ഥം വെള്ളക്കാർ അവരോടൊപ്പം കൊണ്ടുവന്ന പുതിയ മതമായ ക്രിസ്തുമതത്തിന്റെ തലയോ വാലോ ഉമൊഫിയ ഗ്രാമത്തിലെ ആഫ്രിക്കക്കാർക്ക് ഉണ്ടാക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തോട് സഹതാപം കാണിക്കാൻ നമുക്ക് ശരിക്കും കഴിയുന്നു എന്നതാണ് കൂടാതെ ട്രിനിറ്റി സങ്കൽപം പോലത്തെ വിചിത്രമായ എന്തിനെയെങ്കിലും അവർ അഭിമുഖീകരിക്കുമ്പോൾ ഉമൊഫിയ ഗ്രാമനിവാസികൾക്കുണ്ടാകുന്ന ആശയക്കുഴപ്പം നമ്മളും പങ്കിടുന്നു നമ്മൾ 'ഹാർട്ട് ഓഫ് ഡാർക്നെസ്സിനെ' 'തിങ്സ് ഫാൾ അപ്പാർട്ടുമായി' താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരു വിരോധാഭാസം എന്ന നിലയിൽ നമ്മുടെ ഈ വീക്ഷണങ്ങളിലുണ്ടാകുന്ന മാറ്റത്തോടെ കോൺറാടിന്റെ നോവലിലെ മനസ്സിലാക്കാൻ സാധിക്കാത്തതും ഭ്രാന്തുള്ളതുമായ ആഫ്രിക്കൻ ലോകം വിചിത്രമാണെന്നുള്ള ധാരണ അവസാനിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നു എന്നാൽ ഇവിടെ എനിക്ക് പറയാനുള്ളതെന്തെന്നാൽ ഇവിടെ ഞാൻ ഈ നോവലിന്റെ കഥ സംഗ്രഹിച്ച് പറയുകയില്ല അത് നിങ്ങൾ തന്നെ വായിക്കേണ്ടതായിട്ടുള്ളതാണ് അത് തീർത്തും ഒരു പ്രയോജനമുള്ള അനുഭവമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ ഇന്ന് ഇനി ഞാൻ മുന്നോട്ടു വെക്കാൻ പോകുന്നത് ഈ നോവൽ ചർച്ചചെയ്യുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി ഉപയോഗിക്കുന്ന ചില പ്രധാന പ്ലോട്ട് പോയിന്റുകളാണ് ഈ പ്ലോട്ട് പോയിന്റുകൾ കാലക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് നോവലിൽ സംഭവിക്കുന്ന ക്രമത്തിനനുസരിച്ചാണ് അവ ക്രമീകരിച്ചിരിക്കുന്നത് കാലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നോവലിന്റെ വിവരണം നേരെയാണ് ഫ്ലാഷ്ബാക്കുകളും അതു പോലത്തെ കാര്യങ്ങളൊന്നും അധികമില്ല അതു കൊണ്ടുതന്നെ ഇത് തികച്ചും ക്രമാനുസൃതമാണ് നോവലിലുടനീളം ആഖ്യാനം ഒരേ ദിശയിലാണ് പോകുന്നത് ഈ പ്ലോട്ട്പോയിന്റുകൾ കാലക്രമത്തിൽ ക്രമീകരിക്കുന്നതോടൊപ്പം ഈ പോയിന്റുകളിലേക്ക് പ്രമേയപരമായ ഒരു പാറ്റേൺ അവതരിപ്പിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഈ പോയിന്റുകളെ മൂന്ന് പ്രധാന പ്രമേയ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട് ആദ്യത്തേതിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സ്ലൈഡിന്റെ തലകെട്ട് സൂചിപ്പിക്കുന്നതുപോലെ ഇത് ഒക്കോൻകോ എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ഒക്കോൻകോ ആണ് അച്ഛബേയുടെ നോവലിന്റെ നായകൻ അദ്ദേഹം ഉമൊഫിയ വംശത്തിലെ ഒരു പ്രശസ്ത അംഗവുമാണ് ഇതിന്റെ മുഴുവൻ കഥയും യഥാർത്ഥത്തിൽ ഈ കഥാപാത്രത്തിന്റെ ജീവിതത്തെയും കരിയറിനെയും തുറന്നുകാട്ടുന്നതാണ് അതിനാൽ നിങ്ങൾക്ക് കാണാനാവുന്നത് പോലെ ഞാൻ ഇൻട്രൊഡ്യൂസിങ് ഒക്കോൻകോ എന്ന തലക്കെട്ടിനു കീഴിൽ ചില പോയന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പോയിന്റുകളിലേക്ക് നമുക്ക് പിന്നീട് വരാം അതിനാൽ ഇപ്പോൾ നിങ്ങൾ അതിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല അടുത്ത ഭാഗത്ത് ഒക്കോൻകോ ചെയ്യുന്ന വിവിധ പാപങ്ങളെക്കുറിച്ച് ചർച്ചചെയ്യാൻ ലക്ഷ്യമിടുന്നു ഇത് യഥാർത്ഥത്തിൽ നോവലിന്റെ പ്രധാന ഭാഗമായിട്ട് മാറുന്നു ഇവിടെ ഞാൻ ഒക്കോൻകോയുടെ പാപങ്ങൾ Okonkwo's Transgressions എന്ന തലക്കെട്ടിനു കീഴിൽ മൂന്ന് പോയന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനാകുന്നത് പോലെ ഈ മൂന്ന് പോയിന്റുകളും നായകനായ ഒക്കോൻകോ നടത്തിയ കൊലപാതകമോ കൊലപാതക ശ്രമങ്ങളോ രേഖപ്പെടുത്തുന്നു വീണ്ടും മുമ്പത്തെ സ്ലൈഡിൽ എന്നപോലെ ഈ പോയന്റുകളിലേക്കെല്ലാം നമുക്ക് പിന്നീട് മടങ്ങിവരാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനിന്ന് അവതരിപ്പിക്കുന്ന ഈ സ്ലൈഡുകളിലെല്ലാം ബോൾഡ് അക്ഷരങ്ങളിൽ എഴുതിയ വാക്കുകളെല്ലാം നോവലിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് ഇക്കാര്യം മുഖവിലക്കെടുത്ത് ഈ കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക ഇനി മൂന്നാമത്തെ സ്ലൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇവിടെ യൂറോപ്യൻ കൊളോണിയൽ കടന്നുകയറ്റം ആഫ്രിക്കൻ സമൂഹത്തിലുണ്ടാക്കിയ ഫലങ്ങളെക്കുറിച്ചും ഈ ഫലങ്ങളെ ഒക്കോൻകോ നേരിട്ട രീതികളെക്കുറിച്ചും ഞാൻ സംസാരിക്കുന്നുണ്ട് മുമ്പത്തെ ഈ സ്ലൈഡിൽ നിന്നാണ് ഞാനെന്റെ ചർച്ച ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നീട് ഞാൻ പഴയ സ്ലൈഡിലേക്ക് ക്രമേണ തിരികെ പോകും നിങ്ങൾക്ക് കാണാനാകുന്നത് പോലെ ഈ സ്ലൈഡിൽ ഞാൻ രേഖപ്പെടുത്തിയ ആദ്യത്തെ കാര്യം ഒക്കോൻക്കോയുടെ മക്കളിലൊരാളായ നോയ് ക്രിസ്ത്യൻ മിഷനറിമാരുടെ കൂടെ ചേരുന്നു എന്നതാണ് ഈയൊരു ചെയ്തിയുടെ കുഴപ്പം നമ്മൾ മുന്നോട്ടു പോകുന്നതിനനുസരിച്ച് കൂടുതൽ വ്യക്തമാകും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോവലിന്റെ ഏകദേശം മധ്യഭാഗത്ത് എത്തുമ്പോൾ ഉമുവോഫിയ ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യൻ മിഷണറി എത്തിച്ചേരുന്നതായി പറയുന്നുണ്ട് ഇവിടെ എനിക്ക് വ്യക്തമാക്കാനുള്ള ഒരു കാര്യം ഇവിടെ ഞാൻ ഉമൊഫിയ ഗ്രാമീണ സമൂഹത്തെ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മാത്രമല്ല നോവൽ വായിക്കുമ്പോൾ ഉമൊഫിയ ഗ്രാമം എന്ന വാചകം നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിലും ഉമൊഫിയ എന്നത് യഥാർത്ഥത്തിൽ നോവലിൽ ഒരു കുലത്തിന്റെ പേരാണ് ഇഗ്ബോ ഗോത്രത്തിൽ പെട്ട ഒരു കുലം ആണ് ഈ കുലത്തിൽ ഒമ്പത് വ്യത്യസ്ത ഗ്രാമങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഒമ്പത് വ്യത്യസ്ത ഗ്രാമങ്ങൾ ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും വളരെ അടുപ്പമുള്ളതും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുതുമാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഉമൊഫിയയെ പരാമർശിക്കുമ്പോൾ ഞാൻ വാസ്തവത്തിൽ ഗ്രാമീണ സമൂഹത്തെ മുഴുവനായിട്ടാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഈ ഒമ്പത് ഗ്രാമങ്ങൾക്കും വ്യത്യസ്ത പേരുകൾ നൽകിയിട്ടുണ്ട് എന്നതും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് അതിലെ രണ്ട് പ്രധാന പേരുകൾ ഒക്കോൻകോയുടെ സ്വന്തം ഗ്രാമമായ ഇഗ്വേടോയുടെ പേരാണ് പിന്നീട് തന്റെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് ഒക്കോൻകോ നാടുകടത്തപ്പെട്ടതായി നോവൽ വായിക്കുമ്പോൾ നമുക്ക് മനസിലാകും അദ്ദേഹം പിന്നീട് തന്റെ അമ്മയുടെ സ്വന്തം ഗ്രാമമായ എംബന്തയിലേക്കാണ് നീങ്ങുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളി സ്ഥാപിക്കാനായി ഉമൊഫിയയിലെത്തിയ ക്രിസ്ത്യൻ മിഷനറിയിലേക്ക് വീണ്ടും വരുകയാണെങ്കിൽ മിസ്റ്റർ ബ്രൌൺ Mr Brown എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ ബ്രൌണിന്റെ ലക്ഷ്യം ആഫ്രിക്കക്കാരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതാണെങ്കിലും അദ്ദേഹം ഉമൊഫിയ നിവാസികളോട് ശത്രുതയൊന്നും പുലർത്തിയിരുന്നില്ല അവരുമായിട്ട് നേരിട്ട് ഒരു ഏറ്റുമുട്ടലിന് പോകുന്നത് അദ്ദേഹം ഒഴിവാക്കുന്നു എന്നാൽ താമസിയാതെ ബ്രൌൺ മരിക്കുകയും അദ്ദേഹത്തിന് പകരമായി റവറന്റ് ജെയിംസ് സ്മിത്ത് എന്ന വ്യക്തിയെ നിയമിക്കുകയും ചെയ്യുന്നു ഇദ്ദേഹം മിസ്റ്റർ ബ്രൌണിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കർക്കശ പ്രകൃതമുള്ളയാളായിരുന്നു അദ്ദേഹത്തിന് ഉമൊഫിയയിലെ ജനങ്ങൾ പിന്തുടരുന്ന ക്രിസ്തുമതത്തിന്റെ ഭാഗമല്ലാത്ത ആചാരങ്ങളും ചര്യകളും അപരിഷ്കൃതമായത് കൊണ്ട് അതിന് ഇടം കൊടുക്കുന്നതിൽ താൽപര്യമുണ്ടായിരുന്നില്ല റവറന്റ് സ്മിത്ത് സൃഷ്ടിക്കുന്ന കലഹങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും ഈ പുതിയ മോശപ്പെട്ട അന്തരീക്ഷത്തിൽ ക്രിസ്തുമതത്തിലേക്ക് പുതുതായി മതം മാറിയ ഒരാൾ എനോക്ക് എന്ന പേരുള്ള ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു ആഫ്രിക്കക്കാരൻ ഒരു കടുംകൈ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഉമൊഫിയ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു വാർഷിക ഉത്സവത്തിലേക്ക് പോവുകയും അവിടെ അദ്ദേഹമൊരു ദൈവനിന്ദ ചെയ്യുകയും ചെയ്യുന്നു ഒരു പൂർവികന്റെ ആത്മാവിന്റെ പ്രതിരൂപത്തെ അദ്ദേഹം നിന്ദിക്കുന്നു ഇത് ശരിക്കും ഒരു വലിയ അവഹേളനമാണ് അതിന്റെ പ്രതികാര നടപടിയായി ഉമൊഫിയയിലെ ആളുകൾ എനോക്കിന്റെ വീടും റവറന്റ് സ്മിത്തിന്റെ പള്ളിയും കത്തിച്ചുകളയുന്നു ഈ പ്രവർത്തിയിലൂടെ അവർ പുതുതായി എത്തിച്ചേർന്ന ക്രിസ്ത്യാനികളും ഉമോഫിയ ഗ്രാമീണരും തമ്മിലുള്ള ഒരു പോരാട്ടം തുറന്നു കാട്ടുന്നു യൂറോപ്യൻ ഡിസ്ട്രിക്ട് കമ്മീഷണർ ഈ തീവെപ്പ് കേസിൽ വളരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ഈ സ്ലൈഡിലെ രണ്ടാമത്തെ പോയിന്റ് സൂചിപ്പിക്കുന്നതുപോലെ അദ്ദേഹം ഉമൊഫിയയിലെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടച്ചു കൊണ്ട് അവരെ അപമാനിക്കുകയും ചെയ്യുന്നു നേതാക്കളുടെ ജയിൽ മോചനത്തിന് ശേഷം പരമ്പരാഗത ഗ്രാമീണ ജീവിതത്തിലേക്കുള്ള കൊളോണിയൽ അധികാരത്തിന്റെ കടന്നുകയറ്റത്തിനെതിരെ ഒക്കോൻകോ നിർണ്ണായക നടപടി കൈക്കൊള്ളുന്നു യൂറോപ്യൻ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളായി ഉമൊഫിയയിലെ ജനങ്ങളുടെ അടുത്തെത്തിയ കോടതി സന്ദേശ വാഹകരുടെ നേതാവിനെ അദ്ദേഹം കൊല്ലുന്നു എന്നാൽ ഒക്കോൻകോ ചെയ്യാൻ പരാജയപ്പെടുന്നത് എന്തെന്നാൽ വെള്ളക്കാരന്റെ അധികാരത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തന്റെ ഗ്രാമീണരെ പ്രേരിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നതാണ് ഇതിൽ പരാജയപ്പെട്ട അദ്ദേഹം ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയാണ് ഞാനിപ്പോൾ നിങ്ങൾക്കു വിവരിച്ചു തന്ന ഈ കഥ സ്വന്തം ജനതയുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനായി കൊളോണിയൽ അടിച്ചമർത്തലുകൾക്ക് എതിരെ തനിച്ച് പോരാടിയ ഒരു മഹാനായ ആഫ്രിക്കൻ യോദ്ധാവിന്റെ കഥയായി തോന്നാം പക്ഷേ അത് ഈ ആഖ്യാനത്തിന്റെ ഒരു ലളിതമായ വായനയായിരിക്കും കാരണം നമ്മൾ ഒക്കോൻകോയുടെ ജീവിതവും കരിയറും എടുത്ത് നോക്കുകയാണെങ്കിലും സ്വന്തം കുടുംബവുമായും സമുദായവുമായിയുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നോക്കുകയാണെങ്കിലും അച്ഛബേ കൊളോണിയൽ സാഹചര്യത്തെ കുറിച്ചും ഉമൊഫിയൻ ഗ്രാമീണ സമൂഹത്തെ കീഴ്പ്പെടുത്തുന്നതിനെക്കുറിച്ചും അവരുടെ പതനത്തെ കുറിച്ചും കൂടുതൽ സങ്കീർണമായ ഒരു ചിത്രം വരക്കുന്നതായി കാണാം ഈയൊരു സങ്കീർണമായ ചിത്രം മനസ്സിലാക്കുന്നതിനായി എനിക്ക് നമ്മൾ തുടക്കം മുതലുള്ള കാര്യങ്ങൾ തൊട്ടു തുടങ്ങണമെന്നും നായകനായ ഒക്കോൻകോയുടെ സ്വഭാവം കൂടുതൽ നന്നായി മനസ്സിലാക്കണമെന്നും തോന്നുന്നു ഒക്കോൻകോയെ യുനോക എന്ന വ്യക്തിയുടെ മകനായിട്ടാണ് നോവലിന്റെ തുടക്കത്തിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഉനോകയെ പ്രതിഭാശാലിയായ ഒരു സംഗീതജ്ഞനും അതേസമയം ഒരു പിശുക്കനായിട്ടും ഭീരുവായിട്ടുമാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് ഉമൊഫിയയിലൂടെനീളം കടങ്ങളുണ്ട് കുട്ടിക്കാലം മുതൽക്ക് ഒക്കോൻകോക്ക് തന്റെ പിതാവിനെ ഓർത്ത് ലജ്ജ തോന്നുകയും അദ്ദേഹത്തിന്റെ സ്വഭാവം രൂപപ്പെടുത്തിയിരിക്കുന്നത് തന്റെ അച്ഛന് ഉമൊഫിയയിൽ ഉള്ള സ്വത്വത്തിൽ നിന്ന് വിഭിന്നമായുള്ള ഒന്നാവണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് തന്നെ രൂപപ്പെടുത്തേണ്ടത് തന്റെ അച്ഛന്റെ നേർവിപരീതമായിട്ടാണ് തന്റെ അച്ഛന്റെ ഭീരുത്വത്തിന് വിരുദ്ധമായി ശാരീരികമായി ശക്തനും ധീരനുമായിട്ടാണ് വേണ്ടത് ഈ ശാരീരിക ബലം ശാരീരിക വൈദഗ്ധ്യം പുരുഷത്വം ധൈര്യം മുതലായവ സമൂഹം പൊതുവേ ഉയർന്ന രീതിയിൽ അംഗീകരിക്കുന്ന സദ്ഗുണങ്ങളുമാണ് അതിനാൽ ഒരു മത്സരത്തിൽ ദി ക്യാറ്റ് എന്ന ഒരു ഗുസ്തിക്കാരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒക്കോൻകോ തന്റെ കഴിവ് തെളിയിക്കുന്നു അതിനുശേഷം അദ്ദേഹം ഒരു വലിയ കുടുംബത്തെ സാമ്പത്തികമായി പിന്തുണക്കുകയും ധാരാളം ഭാര്യമാരും കുട്ടികളും ഉള്ള വംശത്തിലെ ഏറ്റവും ഉയരമുള്ള നേതാക്കളിൽ ഒരാളായി മാറുകയും ചെയ്തു ഇതിലെ വിരോധാഭാസം എന്താണെന്നാൽ ഈ ഗ്രാമീണ സമൂഹത്തിനിടയിൽ ഒക്കോൻകോക്ക് വളരെയധികം ബഹുമാനം നേടിക്കൊടുത്ത ഈ ശാരീരിക വൈദഗ്ധ്യം തന്നെ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്രാമീണ സമൂഹത്തിന്റെ ആചാരങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ കൊണ്ടു വരുന്നു ഇതിന്റെ കൂടെ എനിക്ക് ചേർത്ത് പറയാനുള്ളത് ഒക്കോൻകോ ഒരിക്കലും പരമ്പരാഗത ചട്ടങ്ങളൊന്നും മനപൂർവ്വം ലംഘിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ശാരീരിക ശക്തി പ്രയോഗിക്കാനുള്ള ശ്രമത്തിൽ ഗ്രാമീണ സമൂഹത്തിലെ ഒരു നേതാവ് ഉമൊഫിയൻ നിയമം സ്ഥാപിച്ച അതിർത്തി ലംഘിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു ഒക്കോൻക്കോയുടെ പാപങ്ങൾക്ക് ഇടയാക്കിയ സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഉമൊഫിയയിലെ ജനങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയിരുന്ന സമാധാന കാലയളവിൽ ഒക്കോൻകോ തന്റെ ഭാര്യയെ നിഷ്ക്കരുണം മർദ്ദിച്ചു എന്നതാണ് ആദ്യത്തെ മഹാപാപം ഒക്കോൻകോ തന്റെ ഭാര്യയെ മർദ്ധിക്കാനുള്ള കാരണം ഭാര്യ അവർക്ക് കല്പിച്ചിട്ടുള്ള കടമകളെ അവഗണിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണ് മാത്രമല്ല തീർച്ചയായും പുരുഷാധിപത്യവും ശാരീരിക ആക്രമണവും അന്തസ്സുള്ള പ്രവർത്തിയായിരുന്ന ഉമൊഫിയൻ സമുദായത്തിൽ ഇത്തരം അവഗണനക്ക് തന്റെ ഭാര്യയെ ഒക്കോൻകോ ശിക്ഷിക്കണമെന്നും മർദ്ധിക്കണമെന്നതും തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ വീട്ടിലെ പുരുഷനെന്ന നിലയ്ക്ക് ഒക്കോൻകോ അവിടുത്തെ സ്ത്രീകളെ കർക്കശമായി ഭരിക്കുമെന്ന ഈ പ്രതീക്ഷയും സമാധാനത്തിന്റെ പവിത്രമായ ആഴ്ചയിൽ അക്രമം നടത്തുന്നതിനെതിരെയുള്ള ആചാര വിലക്കും തമ്മിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു സമൂഹത്തിൽ നിലനിന്ന ഈ ആശയക്കുഴപ്പമാണ് ഒക്കോൻകോയെ കുടുക്കുന്നതും സമൂഹത്തിന്റെ അലിഖിത നിയമങ്ങളും പ്രതീക്ഷകളും പാലിക്കുമ്പോൾ പോലും ഒക്കോൻകോയെ അതിക്രമത്തിന് പ്രേരിപ്പിക്കുന്നതും ഈയൊരു വൈരുദ്ധ്യം ഒക്കോൻകോയെ വീണ്ടും കുടുക്കുന്നത് തന്റെ ധൈര്യം തെളിയിക്കാനായി തന്റെ ദത്തുപുത്രൻ ഇക്കമെഫുനയെ കൊല്ലുമ്പോളാണ് ഇക്കമെഫുനയെ ഒരു അന്തർ ഗോത്ര സംഘർഷം ഒഴിവാക്കാനായി മറ്റൊരു ഗോത്രം ഉമൊഫിയക്ക് സമ്മാനിച്ചതാണ് ഒക്കോൻകോ ഇക്കമെഫുനയെ സ്വന്തം മകനായി വളർത്തുകയും ചെയ്തു എന്നിരുന്നാലും ഗ്രാമത്തിലെ ഒരു വെളിച്ചപ്പാട് ഇക്കമെഫുനയെ കൊല്ലണമെന്ന് കല്പിച്ചപ്പോൾ ഒക്കോൻകോ അതിനെതിരെ വാദിച്ചില്ലെന്ന് മാത്രമല്ല ഈ പ്രവർത്തി അദ്ദേഹം സ്വയം ചെയ്യുകയും ചെയ്തു അദ്ദേഹം തന്നെ ഇക്കമെഫുനയെ കൊന്നു ഇത് ചെയ്തതിലൂടെ അദ്ദേഹം മറ്റൊരു പാപം ചെയ്യുകയാണ് കാരണം വെളിച്ചപ്പാട് ഒക്കോൻകോയോട് ഈ ഒരു പ്രവർത്തിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞിരുന്നു കാരണം അദ്ദേഹം ഇക്കമെഫുനയുടെ പിതാവിനെ പോലെയായിരുന്നു എന്നാൽ ഒക്കോൻകോ ഇക്കമെഫുനയെ കൊന്നതിന്റെ കാരണം ഞാൻ ഇതിനകം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം താൻ ദുർബലനാണെന്ന് മറ്റുള്ളവർ കരുതുന്നുണ്ടെന്ന ഭയത്താൽ നിരന്തരം വേട്ടയാടപ്പെട്ടിരുന്നു എന്നതാണ് അദ്ദേഹം തന്റെ ഭീരുവായ പിതാവിനെ പോലെയാണെന്ന് മറ്റുള്ളവർ കരുതിയേക്കാം അതിനാൽ ഈ ഒരു പ്രവർത്തി ചെയ്ത് തന്റെ പുരുഷ വൈദഗ്ധ്യം തെളിയിക്കാൻ ഒക്കോൻകോ നിരന്തരം സമ്മർദ്ദത്തിലായിരുന്നു തന്റെ ഭാര്യയെ മർദ്ദിച്ചും ദത്തുപുത്രനെ കൊന്നും അല്ലെങ്കിൽ മൂന്നാമത്തെ കേസിൽ ഒരു ഗോത്ര പുരുഷന്റെ 16 വയസ്സുള്ള മകന്റെ അപ്രതീക്ഷിതമായ മരണത്തിൽ അദ്ദേഹത്തിന്റെ അതിക്രമം ഒരു കാരണമായിയുമൊക്കെയാണ് അദ്ദേഹം തന്റെ വൈദഗ്ധ്യം തെളിയിച്ചത് അയാളുടെ ലോഡ് ചെയ്തു വെച്ച തോക്കിൽ നിന്ന് ആകസ്മികമായി കുട്ടിക്ക് നേരെ വെടിയുതിർത്തപ്പോഴാണ് അവൻ കൊല്ലപ്പെടുന്നത് അറിയാതെ വെടിയുതിർക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത ഈ ലോഡ് ചെയ്ത് വെച്ച തോക്ക് ഒക്കോൻകോയുടെ ഒരു സമ്പൂർണ്ണ രൂപകമായി പ്രവർത്തിക്കുന്നു ലോഡ് ചെയ്തു വച്ച തോക്ക് പോലെ അദ്ദേഹം നോവലിലുടനീളം കരുത്തനായ എന്നാൽ അയഞ്ഞ തോക്ക് പോലെ പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ കരുത്താണ് ഒക്കോൻകോയെ തോക്കിനെ പോലെ ഒരു നാശത്തിനിടയാക്കുന്ന ശക്തിയാക്കുന്നത് അങ്ങനെ ഒക്കോൻകോ നോവലിന്റെ അവസാനത്തോടടുത്ത് കോളനിക്കാർക്കെതിരെ ഒറ്റക്ക് യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയായി ഉയർന്നുവരുമ്പോൾ ഈ രംഗം വിരോധാഭാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കാരണം വായനക്കാർ ഒക്കോൻക്കോയെ ഒരേസമയം വെളുത്ത മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്കെതിരെ നിൽക്കാനുള്ള ധൈര്യം കാണിക്കുന്ന വീരനായകനായും അതു പോലെ തന്നെ തന്റെ സാന്നിധ്യം കൊണ്ട് താൻ ഉൾപ്പെട്ടിട്ടുള്ള സമൂഹത്തെ ഭംഗപ്പെടുത്തുന്ന ഒരു എതിരാളിയായിട്ടുമാണ് മനസ്സിലാക്കുന്നത് അതിനാൽ നോവലിന്റെ അവസാനത്തിൽ ഒക്കോൻകോ ഒരേസമയം വീരനായകനായും വില്ലനായ കഥാപാത്രമായും പ്രത്യക്ഷപ്പെടുന്നു ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒക്കോൻകോ എന്ന വ്യക്തി തന്നെയാണ് തന്റെ സമുദായത്തെ കീറി മുറിക്കുന്നതും വെള്ളക്കാരന്റെ അടിച്ചമർത്തലുകളിൽ നിന്ന് അതിനെ രക്ഷിക്കാനുള്ള സാമർത്ഥ്യം പ്രകടിപ്പിക്കുന്നതും അതിനാൽ വായനക്കാർ മനസ്സിലാക്കുന്നത് പോലെ അച്ഛബേ ഈ നോവലിൽ ചിത്രീകരിക്കുന്ന ആഫ്രിക്കയിലെ കൊളോണിയൽ കീഴ്പ്പെടുത്തൽ ദുർബലരായ ആഫ്രിക്കക്കാരെ പിടിച്ചടക്കി കീഴ്പ്പെടുത്തുന്ന ശക്തരായ യൂറോപ്യൻ കയ്യേറ്റക്കാരുടെ വെറും കഥയല്ല ജില്ലാ കമ്മീഷണറുടെ വേഷത്തിലൂടെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള യൂറോപ്യൻ കോളനിക്കാരുടെ ബാഹ്യശക്തി തീർച്ചയായും ഉമോഫിയയുടെ പതനത്തിലും ഗ്രാമീണരെ കീഴ്പ്പെടുത്തിയതിലും ഒരു പങ്കുവഹിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു പ്രവർത്തനം നടത്തുന്ന ഒരേ ഒരു കൂട്ടർ ഇവർ അല്ല തന്റെ തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന ശീർഷകം എടുത്തിട്ടുള്ള ദി സെക്കൻഡ് കമിങ് എന്ന കവിതയിൽ ഡബ്ലിയു ബി യേറ്റ്സ് സൂചിപ്പിക്കുന്നത് പോലെ വസ്തുക്കളെല്ലാം സൂക്ഷ്മമായി തകർന്നടിയുന്നു കാരണം കേന്ദ്രത്തിന് അവയെ ഒരുമിച്ചു നിർത്താൻ കഴിയുന്നില്ല ഉമൊഫിയ വംശവും തകർന്നടിയുന്നു കാരണം സമൂഹത്തിന്റെ കേന്ദ്ര ഭാഗത്തുള്ള ഒക്കോൻകോ ജനങ്ങളെ ഒരുമിച്ചു നിർത്തുന്നതിൽ പരാജയപ്പെടുന്നു ഈ പരാജയം ഏറ്റവും കൂടുതൽ പ്രകടമായത് അദ്ദേഹം സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ മർദ്ധിക്കുകയും കൊലപ്പെടുത്തുകയും അന്യ വൽക്കരിക്കുകയും ചെയ്തപ്പോളാണ് ഇവിടെ ഞാൻ അദ്ദേഹം വധിച്ച തന്റെ ഇളയ ഭാര്യയായ ഇക്കമെഫുനയെ കുറിച്ച് മാത്രമല്ല ഒരു ഭീരുവാണെന്ന കാരണത്താൽ അദ്ദേഹം സ്ഥിരമായി ദ്രോഹിക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ നോവോയെ കുറിച്ചുമാണ് പറയുന്നത് ഒക്കോൻകോ അതിശയോക്തിപരമായ നിലവാരമുള്ള പുരുഷത്വം തന്റെ മകന്റെ മേൽ പ്രയോഗിക്കുകയും അദ്ദേഹത്തിൽ കുറവുണ്ടെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ യുനോകോയുടെ ഒരു പ്രതിരൂപമായിട്ട് തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു അതിനാൽ അദ്ദേഹം നിരന്തരം നോയെയോട് മോശമായി പെരുമാറുന്നു ഇതിന്റെ ഫലമായി ഒക്കോൻക്കോയുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് രക്ഷ തേടുന്നതിനായി നോയെ ഒടുവിൽ പിതാവിനെ ഉപേക്ഷിച്ചു ക്രിസ്ത്യൻ മിഷനറിമാരുടെ കൂടെ കൂടുന്നു ഇത് നമ്മോട് സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ വെള്ളക്കാരോട് പോരാടാൻ മറ്റ് ഗ്രാമീണർ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ വിസമ്മതിക്കുന്നതിനു മുമ്പുതന്നെ ഒക്കോൻകോ ഇതിനകം തന്നെ ഒരു പരാജിതൻ ആയിട്ടുണ്ട് തന്റെ മകൻ പോലും തന്നിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ക്രിസ്ത്യൻ മിഷണറിയാകാൻ ശ്രമിച്ച ഒരു പരാജിതൻ അതുകൊണ്ടുതന്നെ നോവലിന്റെ അവസാനത്തോടടുത്ത് സ്വയം തൂങ്ങിക്കൊണ്ട് ഒക്കോൻകോ ആത്മഹത്യ ചെയ്യുന്നത് ആശ്ചര്യകരമാകുന്നില്ല എന്നാൽ തിങ്സ് ഫാൾ അപ്പാർട്ടിന്റെ അവസാന അധ്യായത്തിൽ ഒക്കോൻകോയിൽ നിന്ന് ശ്രദ്ധ നീങ്ങുന്നത് ഒക്കോൻകോ കൊലപ്പെടുത്തിയ കോടതി സന്ദേശവാഹകരുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ സായുധരായ ആളുകളുമായി ഒക്കോൻക്കോയുടെ ഗ്രാമത്തിലെത്തിയ ജില്ലാ കമ്മീഷണറിലേക്കാണ് തീർച്ചയായും കമ്മീഷണർ വരുന്നതിനു മുമ്പേ തന്നെ ഒക്കോൻകോ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കമ്മീഷണർക്ക് ഒക്കോൻകോയെ പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും അദ്ദേഹം ഒക്കോൻകോയേയും അദ്ദേഹത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെയും ആസ്പദമാക്കി താൻ പുതുതായി എഴുതുന്ന പുസ്തകത്തിലെ ഒരു അദ്ധ്യായം എഴുതാൻ തീരുമാനിക്കുന്നു അങ്ങനെ കമ്മീഷണർ എഴുതുന്ന ഈ പുസ്തകത്തിന്റെ തലക്കെട്ടോടെ തിങ്സ് ഫാൾ അപ്പാർട്ട് അവസാനിക്കുന്നു 'ദി പസിഫിക്കേഷൻ ഓഫ് ദി പ്രിമിറ്റീവ് ട്രൈബ്സ് ഓഫ് ലോവർ നൈജർ' എന്നതാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ഈയൊരു കോഴ്സിൽ ഉടനീളം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന യൂറോപ്യൻ കോളനി വൽക്കരണത്തിന്റെ രണ്ട് വശങ്ങൾ അച്ഛബേ സമർഥമായി ഈ അവസാന നിമിഷത്തിൽ ഒന്നിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ വശം തീർച്ചയായും സൈനിക ശക്തിയും ജില്ലാ കമ്മീഷണറുടെ കൂടെ വന്ന സായുധരായ സൈനികർ പ്രതിനിധീകരിക്കുന്ന സൈനിക നിയന്ത്രണങ്ങളുമാണ് എന്നാൽ ഇവിടെ കൊളോണിയലിസത്തിന്റെ മറ്റൊരു വശം തീർച്ചയായിട്ടും ഉണ്ട് അത് കൊളോണിയൽ വ്യവഹാരത്തിന്റെ വശമാണ് ഈ വശം അവതരിപ്പിച്ചിരിക്കുന്നത് കമ്മീഷണറുടെ എഴുതിത്തീരാത്ത പുസ്തകത്തിലൂടെയാണ് മറ്റെല്ലാ കൊളോണിയൽ വ്യവഹാരങ്ങളെയും പോലെ ഈ കൊളോണിയൽ വ്യവഹാരത്തിന്റെ ഉപയോഗവും കൊളോണിയൽ ശക്തിയേയും അടിച്ചമർത്തലുകളേയും പരിഷ്കരണ ദൌത്യം എന്ന രീതിയിൽ തോന്നിക്കുന്ന തരത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട് ഇത് പുസ്തകത്തിന്റെ തലക്കെട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവിടെ ആഫ്രിക്കയിലെ കൊളോണിയൽ അടിച്ചമർത്തലിനെ പസിഫിക്കേഷൻ എന്നായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കൂടാതെ ഒരു പ്രാകൃത വംശത്തിന്റെ കിരാതവും പ്രാകൃതവും പൂർണമായി മനുഷ്യരല്ലാത്തതുമായ വംശത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ നോവൽ പരിചയപ്പെടുത്തിയ വംശമായ ഇഗ്ബോ സമുദായത്തിന്റെ സങ്കീർണമായ സാമൂഹിക ഘടനയെ ഇതിന്റെ ശീർഷകം കുറച്ചു കാണിക്കുന്നുമുണ്ട് ഞാൻ എന്റെ മുമ്പത്തെ ലക്ച്ചറിൽ സൂചിപ്പിച്ചതുപോലെ ആഫ്രിക്കക്കാരുടെയും ആഫ്രിക്കയുടെയും ഇത്തരത്തിലുള്ള ഒരു പ്രതിച്ഛായയെ സൂക്ഷ്മമായി എതിർക്കാനാണ് അച്ഛബേ തിങ്സ് ഫാൾ അപ്പാർട്ട് എഴുതിയത് ഇതോടെ ചിനുവ അച്ഛബേയേയും അദ്ദേഹത്തിന്റെ ആദ്യ നോവലിനെയും കുറിച്ചുള്ള നമ്മുടെ ചർച്ച അവസാനിക്കുകയാണ് അടുത്ത ലക്ച്ചറിൽ നമ്മൾ കൊളോണിയലിസത്തെയും പോസ്റ്റ് കൊളോണിയലിസത്തെയും ഇന്ത്യൻ വീക്ഷണകോണിൽ നിന്നു നോക്കും